ഇൻഡക്റ്റീവ് നിർവചനങ്ങളെക്കുറിച്ചുള്ള ചർച്ച നമുക്ക് തുടരാം ഫാക്റ്റോറിയൽ ഇൻസർഷൻ സോർട്ട് പോലുള്ള പ്രവർത്തനങ്ങൾ ചെറിയ ഉപപ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വാഭാവിക ഇൻഡക്റ്റീവ് നിർവചനങ്ങളാണെന്ന് ഓർമ്മിക്കുക ഇൻഡക്റ്റീവ് നിർവചനങ്ങൾ നോക്കുന്നതിലെ ആകർഷണം വളരെ വ്യക്തമായ രീതിയിൽ അവ നടപ്പിലാക്കുന്ന ആവർത്തന പ്രോഗ്രാമുകൾ നമുക്ക് വളരെ എളുപ്പത്തിൽ കൊണ്ടുവരാൻ കഴിയും എന്നതാണ് പക്ഷേ വെല്ലുവിളി എന്തെന്നാൽ ഉപപ്രശ്നങ്ങൾ തിരിച്ചറിയുന്നതിൽ ആണ് അവ ഓവർലാപ്പ് ചെയ്തിട്ടില്ലെന്ന് ഞാൻ ഉറപ്പാക്കുന്നു അതിനാൽ ഫാക്റ്റോറിയലിന്റെ കാര്യത്തിൽ ഏതെങ്കിലും ചെറിയ ഇൻപുട്ട് ഫാക്റ്റോറിയൽ ഒരു ഉപപ്രശ്നമാണെന്ന് ഓർമ്മിക്കുക അതുപോലെ തന്നെ സോർട്ടിംഗ് നിങ്ങൾക്ക് ലിസ്റ്റിലെ ഏത് വിഭാഗത്തെയും ഒരു ഉപ പ്രശ്നമായി സോർട്ട് ചെയ്യാൻ കഴിയും പൊതുവേ നമ്മൾ നിർവചിക്കാൻ ശ്രമിക്കുന്ന ഫങ്ഷൻ എഫ് പരിഹാരം ലഭിക്കുന്ന ആവർത്തന പരിഹാരങ്ങളോ ഇൻഡക്റ്റീവ് സൊല്യൂഷനുകളോ ആണ് നമ്മൾ നോക്കുന്നത് അതിനാൽ y യേക്കാൾ ചെറിയ ഇൻപുട്ടുകൾ ഉപയോഗിച്ച് നമ്മൾ f കണക്കാക്കുന്നു അതിനാൽ ഫിബൊനാച്ചി നമ്പറുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന വളരെ പരിചിതമായ സീരീസുമായി ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നോക്കാം നമുക്ക് ഫിബൊനാച്ചി നമ്പറുകൾ ഇനിപ്പറയുന്ന രീതിയിൽ നിർവചിക്കാം ആദ്യത്തെ രണ്ട് ഫിബൊനാച്ചി സംഖ്യകൾ 0 ഉം 1 ഉം ആണ് തുടർന്ന് ഇവ രണ്ടും ചേർത്ത് തുടർച്ചയായുള്ള ഓരോ ഫിബൊനാച്ചി നമ്പറുകളും ലഭിക്കും ഇപ്പോൾ നമ്മൾ ഫിബൊനാച്ചി നമ്പറുകൾ എങ്ങനെ കണക്കാക്കും എന്ന് ആരംഭിക്കുന്നതിന് മുമ്പുതന്നെ കാണാൻ നിർദ്ദേശമുണ്ട് ആദ്യ രണ്ടെണ്ണം 0 ഉം 1 ഉം ആണെന്നും അടുത്തത് ഈ രണ്ടിന്റെ ആകെത്തുകയാണെന്നും നമുക്കറിയാം അതിനാൽ അടുത്തത് വീണ്ടും 1 ആയിരിക്കും അടുത്തത് 2 ആയിരിക്കും ഈ 1 പ്ലസ് 1 ന് അടുത്തത് 3 ഉം അടുത്തത് 5 ഉം അടുത്തത് 8 ഉം അടുത്തത് 13 ഉം ആയിരിക്കും അതിനാൽ ഈ സംഖ്യകൾ ഒരു ഇൻഡക്റ്റീവ് ഡെഫനിഷൻ ആണെങ്കിലും വ്യക്തമായ ഒരു ആവർത്തന പ്രവർത്തനമുണ്ടെങ്കിലും അത് ഒരു മിനിറ്റിനുള്ളിൽ ഞാൻ പരാമർശിച്ചു ഈ സംഖ്യകളെ കണക്കാക്കുന്നതിന് വളരെ കാര്യക്ഷമമായ ഒരു മാർഗമുണ്ട് നേരിട്ട് ലീനിയെർ സമയത്ത് അപ്പോൾ ഫംഗ്ഷൻ കോഡിന്റെ നിർവചനം എങ്ങനെ N ന്റെ ഫിബൊനാച്ചി n എന്നത് 0 ആണെങ്കിൽ 0 മടങ്ങുക n 1 റിട്ടേൺ 1 ആണെങ്കിൽ അതിനാൽ n 0 അല്ലെങ്കിൽ 1 ആണെങ്കിൽ മൂല്യം n തന്നെയാണ് അല്ലാത്തപക്ഷം n മൈനസ് 1 ന്റെ ഫിബൊനാച്ചി n മൈനസ് 2 ന്റെ ഫിബൊനാച്ചി എന്നിവ ഉപയോഗിച്ച് നിങ്ങൾ ആവർത്തിച്ച് മൂല്യം കണക്കാക്കുന്നു ഒടുവിൽ നിങ്ങൾ കണക്കാക്കിയ ഏത് മൂല്യവും നിങ്ങൾ തിരികെ നൽകും അപ്പോൾ എവിടെ ഇത് കണ്ടുപിടിക്കാം അതിനാൽ നമ്മൾ ഫിബൊനാച്ചി കണ്ടതുപോലുള്ള ഒരു ചെറിയ ഇൻപുട്ടിൽ ഇത് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നോക്കാം നമ്മൾ 5 ന്റെ ഫിബൊനാച്ചി കണ്ടു ഈ 5 നമ്മൾ 0 1 1 എന്ന് ആരംഭിക്കുന്നുവെന്ന് നമുക്കറിയാം അതിനാൽ ഇവയാണ് ആർഗ്യുമെന്റുകൾ മൂല്യങ്ങൾ 0 1 1 2 3 എന്നിട്ട് 5 ആണ് അതിനാൽ നമ്മൾ കണക്കുകൂട്ടാൻ ശ്രമിക്കുന്നു ഇത് ഒരു ഫിബൊനാച്ചി നമ്പറാണെങ്കിൽ നമ്മൾ വളരെ വേഗത്തിൽ കണക്കുകൂട്ടി പക്ഷേ ഈ ആവർത്തന കാര്യം യഥാർത്ഥത്തിൽ എങ്ങനെ ലഭിക്കുമെന്ന് നമുക്ക് നോക്കാം ഞാൻ 5 ന്റെ ഫിബൊനാച്ചി എന്ന് വിളിച്ചാൽ ആവർത്തിച്ച് ഇത് 4 3 ന്റെ ഫിബൊനാച്ചി കണക്കുകൂട്ടാൻ ആവശ്യപ്പെടും 4 ന്റെ ഫിബൊനാച്ചി 3 ഉം 2 ഉം കണക്കുകൂട്ടാൻ ആവശ്യപ്പെടും ഇപ്പോൾ 3 ഉം 2 ഉം 1 ഉം കണക്കുകൂട്ടാൻ എന്നോട് ആവശ്യപ്പെടും തുടർന്ന് 2 ഉം 1 ഉം 0 ഉം കണക്കുകൂട്ടാൻ ആവശ്യപ്പെടും ഇപ്പോൾ ഭാഗ്യവശാൽ 1 നും 0 നും എനിക്ക് ഒരു അടിസ്ഥാന കേസ് ഉണ്ട് അതിനാൽ എനിക്ക് യഥാക്രമം 1 0 എന്നീ മൂല്യങ്ങൾ ലഭിക്കും എനിക്ക് 1 ഉം 0 ഉം ലഭിച്ചതിനാൽ എനിക്ക് ഇപ്പോൾ 2 ന്റെ ഫിബൊനാച്ചി കണക്കുകൂട്ടാൻ കഴിയും കൂടാതെ എനിക്ക് ഉത്തരം 1 ലഭിക്കും ഇപ്പോൾ ഞാൻ ഫിബൊനാച്ചി 1 ആയി മാറി വീണ്ടും ഇത് ഒരു അടിസ്ഥാന കേസാണ് എനിക്ക് ഉത്തരം 1 ലഭിക്കുന്നു 3 ന്റെ ഫിബൊനാച്ചിക്ക് ആവശ്യമായ രണ്ട് ഉത്തരങ്ങളും ഇപ്പോൾ എന്റെ പക്കലുണ്ട് അതിനാൽ എനിക്ക് ഉത്തരം 2 ലഭിക്കുന്നു ഇപ്പോൾ ഞാൻ തിരികെ പോയി 2 ന്റെ ഫിബൊനാച്ചി കണക്കുകൂട്ടുന്നു പക്ഷേ ഞാൻ ഇതിനകം തന്നെ ഇത് കണക്കുകൂട്ടിയിട്ടുണ്ടെന്ന് ഓർക്കുക പക്ഷേ ഞാൻ ഇത് ശ്രദ്ധിച്ചില്ല ചില അർത്ഥത്തിൽ ഞാൻ അന്ധമായി ആവർത്തനം ചെയ്യുന്നു 2 ന്റെ ഫിബൊനാച്ചി വീണ്ടും 1 0 എന്നിവയുടെ ഫിബൊനാച്ചി കണക്കുകൂട്ടാൻ എന്നോട് ആവശ്യപ്പെടും ഇത് 1 0 എന്നിവ ഉപയോഗിച്ച് അടിസ്ഥാന കേസ് വീണ്ടും സൃഷ്ടിക്കും ഞാൻ വീണ്ടും 2 ന്റെ ഫിബൊനാച്ചി 1 ആയി കണക്കാക്കും ഇപ്പോൾ 3 2 എന്നിവയുടെ ഫിബൊനാച്ചി ലഭ്യമാകും എനിക്ക് 4 3 ഫിബൊനാച്ചി ഉത്തരം ലഭിക്കും ഇപ്പോൾ ഞാൻ തിരികെ പോയി ഫിബൊനാച്ചി 3 വീണ്ടും കണക്കുകൂട്ടും അതിനാൽ ഞാൻ ഈ ട്രീ മുഴുവൻ വീണ്ടും ചെയ്യും 3 കോളുകൾ 2 ഉം 1 ഉം 2 കോളുകൾ 1 ഉം 0 ഉം ഇവ അടിസ്ഥാന കേസ് നൽകുന്നു അത് എനിക്ക് 2 ന് ഒരു മൂല്യം നൽകുന്നു 1 അടിസ്ഥാന കേസ് നൽകുന്നു ഇത് എനിക്ക് 3 ന് ഒരു മൂല്യം നൽകുന്നു ഒടുവിൽ ഇവയ്ക്കെല്ലാം ശേഷം എനിക്ക് 5 ന്റെ ഫിബൊനാച്ചി മൂല്യം ലഭിക്കും നമുക്ക് കാണാനാകുന്ന പ്രശ്നം 3 ന്റെ ഫിബൊനാച്ചി പൂർണ്ണവും പൂർണ്ണവുമായ സങ്കീർണ്ണതയിൽ രണ്ടുതവണ കണക്കുകൂട്ടി 2 ന്റെ ഫിബൊനാച്ചി പോലുള്ള മറ്റ് പ്രവർത്തനങ്ങൾ 1 2 3 തവണ കണക്കുകൂട്ടി തീർച്ചയായും അതിലേക്കുള്ള 1 ന്റെ ഫിബൊനാച്ചി അടിസ്ഥാന കേസ് 1 2 3 4 5 തവണയും 0 ന്റെ ഫിബൊനാച്ചി 3 തവണയും വിളിക്കപ്പെടുന്നു ഈ ആവർത്തന കണക്കുകൂട്ടലിന്റെ വലിയ പ്രശ്നമാണിത് പക്ഷേ നമ്മൾ വളരെയധികം കാര്യങ്ങൾ കണക്കുകൂട്ടുന്നതായി തോന്നുന്നു 5 ന്റെ ഫിബൊനാച്ചി കണക്കുകൂട്ടുന്നതിനായി എനിക്ക് 4 3 2 1 0 ആവശ്യമാണെന്ന് എനിക്കറിയാം അതിനാൽ എനിക്ക് ആവശ്യ൦ ആറ് മൂല്യങ്ങൾ മാത്രം കണക്കാക്കേണ്ടതുണ്ട് മാത്രമല്ല ഞാൻ വളരെയധികം കണക്കുകൂട്ടുകയും ചെയ്യുന്നു പ്രശ്നത്തിന്റെ വിള്ളലുകൾ ആവർത്തന കണക്കുകൂട്ടലിനുള്ളിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന ഉപപ്രശ്നങ്ങളുണ്ട് കാരണം 3 ന്റെ ഫിബൊനാച്ചി മൂല്യം 4 ന്റെ ഫിബൊനാച്ചി എന്നും ഒറിജിനൽ ഫിബൊനാച്ചി എന്ന് വിളിക്കപ്പെടുന്ന നെസ്റ്റഡ് ആവർത്തനത്തെ സൃഷ്ടിക്കുന്നു അതിനാൽ ഒറിജിനൽ ഫിബൊനാച്ചി 5 നെസ്റ്റഡ് ആവർത്തന 4 ന്റെ ഫിബൊനാച്ചി അതിനാൽ ഈ മുഴുവൻ കണക്കുകൂട്ടൽ ട്രീയും നമുക്കുണ്ട് അത് തനിപ്പകർപ്പാണ് മാത്രമല്ല ഇത്തരത്തിലുള്ള പാഴാക്കൽ പുനർസംയോജനത്തിന് കാരണമാവുകയും ചെയ്യുന്നു നിങ്ങൾ യഥാർത്ഥത്തിൽ പൊതുവായി ഒൻപതാമത്തെ ഫിബൊനാച്ചി നമ്പർ കണക്കുകൂട്ടാൻ കണ്ടെത്തുന്നു നിങ്ങൾ യഥാർത്ഥത്തിൽ n ഒരു ഘട്ടങ്ങളിൽ കുറച്ച് എക്സ്പോണൻഷ്യൽ ചെയ്യുന്നു എന്നിരുന്നാലും നിങ്ങൾക്ക് ലീനിയർ സമയത്ത് nth ഫിബൊനാച്ചി നമ്പർ കണക്കുകൂട്ടാൻ കഴിയുമെന്ന് കാണും സോർട്ട് ചെയ്തു നിങ്ങൾ 0 1 2 3 4 എന്നിങ്ങനെ കണക്കുകൂട്ടി ഇത് പരിഹരിക്കാനുള്ള ഒരു മാർഗം നിങ്ങൾ ഒരിക്കലും ഒരു ഉപപ്രശ്നം വീണ്ടും വിലയിരുത്തുന്നില്ലെന്ന് ഉറപ്പാക്കുക എന്നതാണ് അതിനാൽ നിങ്ങൾ ടേബിൾ നിർമ്മിക്കുന്നു അതിനെ മെമ്മറി ടേബിൾ എന്നു വിളിക്കുന്നു ടേബിൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ മുമ്പ് ഫംഗ്ഷൻ കണക്കുകൂട്ടിയ എല്ലാ മൂല്യങ്ങളുടെയും ട്രാക്ക് സൂക്ഷിക്കുന്നു അതിനാൽ ഇത് ജാവ പോലുള്ള ഒരു ഭാഷയിൽ നോക്കുക മാത്രമാണ് അത് ഒരു ഹാഷ് മാപ്പ് അല്ലെങ്കിൽ പൈത്തൺ പോലുള്ള ഭാഷ ആകാം അത് ഒരു നിഘണ്ടു ആകാം X എന്ന മൂല്യത്തിൽ നിങ്ങൾ ഒരു f എന്ന് വിളിക്കുമ്പോഴെല്ലാം ഈ ടേബിളിൽ x കോമ f x സംഭരിക്കുന്നു നിങ്ങൾക്ക് മുകളിലേക്ക് നോക്കിയാൽ കാണാം നമ്മൾ ഇതിനോടകം കണക്കു കൂട്ടി കഴിഞ്ഞു ഇതിനെ മെമോയിസേഷൻ എന്ന് വിളിക്കുന്നു അതിനാൽ മെമ്മോയിസേഷൻ എന്ന പദം മെമ്മോ എന്ന പദത്തിൽ നിന്നാണ് വരുന്നത് മെമ്മോ എന്നത് ഒരു കുറിപ്പാണ് അത് നിങ്ങൾ എന്തോ മറ്റൊരാളോ മറ്റോ ആയി അവശേഷിക്കുന്നു അതിനാൽ മെമ്മോയിസേഷൻ മെമ്മോ ടേബിൾ അല്ലെങ്കിൽ ഒരു മെമ്മറി ടേബിൾ നിങ്ങളുടെ കണക്കുകൂട്ടുന്നതിനുള്ള സമയത്തിന്റെ മൂല്യം ഇതിനകം തന്നെ കണക്കുകൂട്ടിയതായി നിങ്ങളെ ഓർമ്മപ്പെടുത്തും മെമ്മോയിസേഷൻ എങ്ങനെ പ്രവർത്തിക്കും നമുക്ക് ഈ മെമ്മോ ടേബിൾ ഇവിടെയുണ്ട് ഇതാണ് നമ്മുടെ മെമ്മോ ടേബിൾ അതിനാൽ ഈ മെമ്മോ ടേബിളിൽ ഇത് കെ യുടെ വ്യത്യസ്ത മൂല്യത്തിന് അനുയോജ്യമായ ഒരു ടേബിൾ മാത്രമാണ് കൂടാതെ ഫിബ് കെ അവയെ കണക്കുകൂട്ടി നമ്മൾ ഒന്നും കണക്കുകൂട്ടിയിട്ടില്ലെന്ന് അനുമാനിച്ചു അടിസ്ഥാന കേസ് പോലും നമുക്ക് അറിയില്ല നമ്മൾ ആവർത്തന നിർവചനം പ്രയോഗിക്കാൻ പോകുന്നു എന്നാൽ നമ്മൾ എന്തെങ്കിലും കണക്കുകൂട്ടുമ്പോഴെല്ലാം നമ്മൾ ആവർത്തിച്ച് കണക്കുകൂട്ടുന്നതിനുമുമ്പ് ആദ്യം ടേബിൾ നോക്കും കൂടാതെ നമ്മൾ ആവർത്തിച്ച് കണക്കുകൂട്ടേണ്ടതുണ്ടെങ്കിൽ ടേബിളിന്റെ പുതുതായി കണക്കുകൂട്ടിയ ഓരോ പിൻഭാഗവും നമ്മൾ സംഭരിക്കും അതിനാൽ 5 ന്റെ ഫിബൊനാച്ചി കണക്കുകൂട്ടാൻ ആരംഭിക്കുന്നതിന് മുമ്പുള്ളതുപോലെ നമുക്ക് ആരംഭിക്കാം 4 3 ന്റെ ഫിബൊനാച്ചി എന്ന് വിളിക്കണമെന്ന് ആവർത്തന നിർവചനങ്ങൾ പറയുന്നു ഇപ്പോൾ നമ്മൾ 4 ലേക്ക് പോകുന്നു അവിടെ ആവർത്തനം ഇടത്തുനിന്ന് വലത്തോട്ട് ചെയ്യുന്നു അതിനാൽ 4 ഉം 3 ഉം 2 ഉം 3 വിളിക്കും 2 ഉം 1 ഉം 2 ഉം 1 ഉം 0 ഉം വിളിക്കും ഈ സമയത്ത് നമ്മൾ 1 ന്റെ ഫിബൊനാച്ചിയെ ആദ്യമായി വിലയിരുത്താൻ ശ്രമിക്കുന്നു നമ്മൾ 1 ന്റെ ഫിബൊനാച്ചി ആദ്യമായി വിലയിരുത്തുമ്പോൾ ഒരു അടിസ്ഥാന കേസ് നമുക്ക് ലഭിക്കുന്നു അത് ഈ മൂല്യം 1 ആണെന്ന് അത് നമ്മോട് പറയുന്നു അതിനാൽ നമ്മൾ ഈ മൂല്യം തിരികെ നൽകും പക്ഷേ നമ്മൾ അത് ടേബിളിൽ സൂക്ഷിക്കുകയും ചെയ്യും ഇപ്പോൾ നമ്മൾ ടേബിളിൽ തന്നെ ആദ്യത്തെ എൻട്രി തയ്യാറാക്കിയിട്ടുണ്ട് 1 ന്റെ ഫിബൊനാച്ചി 1 ആണ് തുടർന്ന് നമ്മൾ 0 ന്റെ ഫിബൊനാച്ചിയിലേക്ക് നോക്കുന്നു ഇത് വീണ്ടും ഒരു പുതിയ മൂല്യമാണ് അടിസ്ഥാന കേസിൽ നിന്ന് നമുക്ക് അത് ലഭിച്ചു പക്ഷേ മുമ്പ് നമ്മൾ ഒരിക്കലും കണക്കുകൂട്ടിയില്ല അതിനാൽ ഇപ്പോൾ അടിസ്ഥാന കേസ് കണക്കുകൂട്ടിയാണ് നമ്മൾ ഇത് കണക്കാക്കുന്നത് വീണ്ടും ടേബിളിന്റെ വശത്ത് ഒരു എൻട്രി ഇടുന്നു 0 ന്റെ ചിഹ്നത്തിന്റെ ഫിബൊനാച്ചി അതിനാൽ മുമ്പത്തെപ്പോലെ 2 ന്റെ ഫിബൊനാച്ചി ലഭിച്ചു ഈ സമയം വരെ നമ്മൾ ഒന്നും സംരക്ഷിച്ചിട്ടില്ല ഇപ്പോൾ നമ്മളൊഴികെ 2 ന്റെ ഒരു കണക്കുകൂട്ടിയ ഫിബൊനാച്ചി ആയതിനാൽ പുതിയ മൂല്യം കണക്കുകൂട്ടി നമ്മൾ ടേബിളിൽ ഇട്ടു ഇപ്പോൾ 3 ന്റെ ഫിബൊനാച്ചിയിൽ തുടരാൻ എനിക്ക് 1 ന്റെ ഫിബൊനാച്ചിയിലേക്ക് മടങ്ങേണ്ടതുണ്ട് തീർച്ചയായും ഇത് അടിസ്ഥാന കേസാണ് പക്ഷേ എന്റെ ടേബിൾ കാര്യം നമ്മോട് പറയുന്നത് നിങ്ങൾ ആദ്യം ടേബിൾ നോക്കണമെന്ന് നിങ്ങളോട് പറയുന്നു അതിനാൽ നമ്മൾ രണ്ടുപേരും ടേബിളിൽ ഇത് കാര്യക്ഷമമായ രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു പക്ഷേ ഏറ്റവും മോശമായ സാഹചര്യത്തിൽ അത് നിഷ്കളങ്കമായി സ്കാൻ ചെയ്യുകയാണ് നമുക്ക് ഇതിനുമുമ്പ് 1 ന്റെ ഫിബൊനാച്ചി ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്നു ഇത് ഞാൻ 1 ന്റെ ഫിബൊനാച്ചി ചെയ്തു അടിസ്ഥാന കേസ് വിളിക്കാതെ അത് ആ മൂല്യം നോക്കും നമ്മൾ ഫംഗ്ഷൻ നിർവചനം നോക്കേണ്ടതുണ്ട് കൂടാതെ 1 ന്റെ ഫിബൊനാച്ചി 1 ആണ് അതിനാൽ ഈ കോൾ യഥാർത്ഥത്തിൽ ടേബിളിൽ നിന്ന് മടങ്ങിയെത്തിയതായി അറിയിക്കാൻ ഓറഞ്ച് നിറമാക്കി നമ്മൾ സൂചിപ്പിക്കുന്നു അതാണ് യഥാർത്ഥത്തിൽ ആവശ്യമായ കണക്കുകൂട്ടൽ അതിനാൽ ഇപ്പോൾ 1 ഉം 1 ഉം ഉള്ള 3 ന്റെ ഫിബൊനാച്ചി ഇപ്പോൾ 2 ആണ് ഇപ്പോൾ ഞാൻ 4 ന്റെ ഫിബൊനാച്ചിയിൽ തുടരേണ്ടതുണ്ട് അതിനാൽ ഇപ്പോൾ എനിക്ക് 2 ന്റെ ഫിബൊനാച്ചി വീണ്ടും വിളിക്കണം ഇപ്പോൾ അത് താഴേക്ക് പോകും ഞാൻ 2 ന്റെ ഫിബൊനാച്ചി കണ്ടിട്ടുണ്ടെന്ന് പറയുകയും എനിക്ക് ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നു അതിനാൽ വീണ്ടും കണക്കുകൂട്ടൽ നടത്താതെ ഇത് ഈ മെമ്മോ ടേബിൾ നോക്കുകയും വീണ്ടും ഓറഞ്ച് മൂല്യത്തിൽ അടയാളപ്പെടുത്തുകയും ചെയ്യും കാരണം ഇത് വന്നത് ടേബിളിൽ നിന്നാണ് അത് നമ്മൾ ടേബിളിൽ സൂക്ഷിച്ച മൂല്യം 1 നൽകുന്നു ഇപ്പോൾ ഞാൻ ഇത് കണക്കുകൂട്ടി എനിക്ക് 4 ന്റെ ഫിബൊനാച്ചി ലഭിച്ചു അതിനാൽ 4 ന്റെ ഫിബൊനാച്ചി നമ്മൾ ആവർത്തന നിർവചനത്തിൽ നിന്ന് 3 ആയി കണക്കാക്കുകയും അവിടെ വീണ്ടും ടേബിളിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു നമ്മൾ കണക്കുകൂട്ടുന്ന ഓരോ പുതിയ മൂല്യവും അത് വീണ്ടും ഉപയോഗിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് ടേബിളിൽ സൂക്ഷിക്കുന്നു പക്ഷേ നമുക്ക് അത് വീണ്ടും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവ കൈവശം വയ്ക്കുന്നത് നല്ലതാണ് അതിനാൽ ഭാവിയിലെ ഉപയോഗത്തിനായി നമ്മൾ കണക്കുകൂട്ടിയതെല്ലാം ടെബിളിലേക്ക് ഇടുന്നു ഇപ്പോൾ നമ്മൾ 5 ന്റെ മുകളിലെ ഫിബൊനാച്ചിയിലേക്ക് മടങ്ങുന്നു നമുക്ക് ഇടത് നോട്ടം ലഭിച്ചു ഈ നോട്ടം നമുക്ക് ആവശ്യമാണ്നമ്മൾ 3 ന്റെ ഫിബൊനാച്ചിയിലേക്ക് പോകുന്നു നേരത്തെ 3 ന്റെ ഫിബൊനാച്ചി ലഭിക്കുന്നതിന് ചുവടെ 3 മുഴുവനും ലീനിയല്ലി പുനർനിർമ്മിച്ചിരുന്നു ഈ സമയം നമ്മൾ മിടുക്കരാണ് നമ്മൾ ടെബിളെലേക്ക് ഇറങ്ങുന്നു 3 മുമ്പ് കണക്കുകൂട്ടിയിട്ടുണ്ടെന്നും മൂല്യം 2 ആണെന്നും കണ്ടെത്തി അതിനാൽ ഈ മൂല്യം 2 നമുക്ക് ലഭിക്കും ഇപ്പോൾ 5 ന്റെ ഫിബൊനാച്ചിക്ക് ആവശ്യമായ ഉത്തരങ്ങൾ എന്തൊക്കെയാണ് അതിനാൽ നമുക്ക് 5 ന്റെ ഫിബൊനാച്ചി 5 ആണ് അത് വീണ്ടും ടേബിളിൽ ഇടുന്നു എന്നിരുന്നാലും ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ഉപയോക്താവിലെ കണക്കുകൂട്ടലിലേക്ക് പോകുന്നത് അവസാനിച്ചു പക്ഷേ ഇത് ഒരു വലിയ കണക്കുകൂട്ടലിന്റെ ഭാഗമാകാം അതിനാൽ ഇത് ചെയ്യുന്നത് തുടരുകയാണ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് എക്സ്പോണൻഷ്യൽ ഉപയോഗിച്ച കമ്പ്യൂട്ടെഷൻ ട്രീ ഇപ്പോൾ ലീനിയെർ ആണ് എന്തു കൊണ്ടാണ് ഇത് ലീനിയെർ ആയത് കാരണം നീലനിറത്തിലുള്ള എല്ലാ മൂല്യങ്ങളും 1 സെയിലും നീല നിറത്തിലല്ലാത്ത എല്ലാ മൂല്യങ്ങളും ടേബിളിൽ കാണുന്നതാണ് ഇതിന് ഒരു വിലയും ഇല്ല അതിനാൽ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കി അതിനാൽ ഇത് കൂടുതലോ കുറവോ ഈ ഓർമ്മപ്പെടുത്തിയ ഫിബൊനാച്ചി നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് കൈകൊണ്ട് കണക്കാക്കുമ്പോൾ മറ്റൊരു ക്രമത്തിലാണ് ചെയ്യുന്നത് മെമോയൈസ്ട് ഫിബൊനാച്ചി കാണാൻ എങ്ങനെയിരിക്കും ഗ്രീൻ കോഡ് നമ്മൾ മുമ്പ് എഴുതിയതാണ് n ന്റെ ഫിബ് n 0 അല്ലെങ്കിൽ 1 ആണെങ്കിൽ മൂല്യം n ആയി സജ്ജമാക്കുക അല്ലാത്തപക്ഷം മൂല്യം n മൈനസ് 1 ന്റെ ഫിബിലേക്ക് സജ്ജമാക്കുക n മൈനസ് 2 ന്റെ ഫിബിലേക്ക് മടങ്ങുക അതിനാൽ ഇപ്പോൾ നമ്മൾ ചുവപ്പ് നിറത്തിലുള്ള ഒരു മെമ്മോ ബിറ്റുകൾ അവതരിപ്പിച്ചു നമുക്ക് ഫിബ് ടേബിൾ എന്ന് വിളിക്കുന്ന ഒരു ടേബിൾ ഉണ്ട് അതിന്റെ മൂല്യങ്ങൾ സ്ഥാനം അനുസരിച്ച് സൂചികയിലാക്കുന്നു 6 ന്റെ ഫിബ് ഞാൻ കണക്കുകൂട്ടിയാൽ ഫിബ്ടേബിൾ 6 ലേക്ക് പോകുന്നു അതിനാൽ പൂരിപ്പിക്കാൻ ഒരു ആർഗ്യുമെന്റ് ലഭിക്കുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ഫിബ് ടേബിളിന് അതിനുള്ള എൻട്രി ഉണ്ടോ എന്ന് നോക്കുക എന്നതാണ് അതിനാൽ n ന്റെ ഫിബ് ടേബിൾ നിലവിലുണ്ടെങ്കിൽ അത് പറയുന്നതെന്തും നൽകുന്നു അത് നിലവിലില്ലെങ്കിൽ നമ്മൾഅത് കണക്കുകൂട്ടി ഒരിക്കൽ അത് കണക്കുകൂട്ടിയ ശേഷം എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അത് വീണ്ടും ടേബിളിൽ ഇടുന്നു അതിനാൽ അടുത്ത തവണ നമ്മൾ ഇത് കണക്കാക്കില്ല ഓരോ പുതിയ മൂല്യവും ടേബിളിൽ തിരികെ വയ്ക്കുകയും തുടർന്ന് അത് തിരികെ നൽകുകയും ചെയ്യുന്നു നമ്മൾ ഇവിടെ ഒരു മൂല്യം നൽകുമ്പോൾ ഇത് ആദ്യമായി കണക്കുകൂട്ടി പക്ഷേ അത് ടേബിളിൽ സൂക്ഷിച്ചിരിക്കുന്നു അടുത്ത തവണ എനിക്ക് ഇവിടെ ലഭിക്കുന്നത് ഞാൻ ഇവിടെ വരും അതാണ് ഞാൻ നിലനിൽക്കുന്നത് അതിനാൽ ഇത് നമ്മുടെ ഓർമ്മപ്പെടുത്തിയ ഫിബൊനാച്ചി ആണ് ഇതിന് തുടക്കത്തിൽ ടെബിളിനായി വളരെ ലളിതമായ ഒരു പരിശോധനയുണ്ട് നിങ്ങൾ മൂല്യം കണക്കാക്കുമ്പോൾ അത് തിരികെ നൽകുന്നു ഇത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന വളരെ ലളിതമായ കാര്യമാണ് ഏത് ഫംഗ്ഷനുകൾക്കും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് മൂന്ന് ആർഗ്യുമെന്റുകളുള്ള ചില ആവർത്തന ഫംഗ്ഷനോ ഇൻഡക്റ്റീവ് ഫംഗ്ഷനോ ഉണ്ടായിരുന്നുവെന്ന് കരുതുക നിങ്ങൾക്ക് മൂന്ന് സൂചികകളുള്ള ഒരു ടേബിൾ ഉണ്ട് അതിനെ ഒരു f ടേബിൾ എന്ന് വിളിക്കാം അതിനാൽ f കമ്പ്യൂട്ട് ചെയ്യണം ഉപ പ്രശ്നങ്ങളിൽ നിന്ന് മൂല്യം കണക്കുകൂട്ടാൻ നിങ്ങൾക്ക് ചില ഇൻഡക്റ്റീവ് മാർഗമുണ്ട് ആദ്യം നിങ്ങൾ നോക്കിയാൽ ഈ x y z മുമ്പ് കണ്ടിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ അത് തിരികെ നൽകുക അല്ലാത്തപക്ഷം നൽകിയിരിക്കുന്ന x y z എന്നിവയ്ക്കായുള്ള ഒരു പുതിയ മൂല്യം കണക്കുകൂട്ടിയ പ്രശ്നത്തിന്റെ ഇൻഡക്റ്റീവ് ഘടനയിൽ നിന്നുള്ള ആവർത്തന നിർവചനത്തിന്റെ അടിസ്ഥാനത്തിൽ കണക്കുകൂട്ടുക അത് വീണ്ടും ടേബിളിൽ ഇടുക നിങ്ങൾ ഒരിക്കലും വ്യക്തമായി കണക്കുകൂട്ടിയിട്ടില്ലെന്നും നിങ്ങൾ മടങ്ങിയെത്തുകയും ചെയ്യുന്നു ഇത് നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്ന ഏതൊരു ആവർത്തന പ്രവർത്തനത്തിലും പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു ജനറിക്സ് കീ ആണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരേയൊരു കാര്യം നിങ്ങൾക്ക് ഉചിതമായ ടേബിൾ ഉപയോഗിച്ച് ഒരു ടേബിൾ രൂപകൽപ്പന ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് മാത്രമല്ല അത് കാര്യക്ഷമമായി കാണുകയും ചെയ്യും കാരണം ടേബിളിന്റെ മൂല്യം നോക്കാൻ വളരെക്കാലം ചെലവഴിക്കുകയാണെങ്കിൽ അത് നഷ്ടപ്പെടും അതിനാൽ നിങ്ങൾക്ക് ഇത് അറേ ലുക്ക് അപ്പ് അവസാനിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് അനുയോജ്യമാണ് അതിനാൽ ഇതാണ് മേമോയിസേഷൻ അവസാന പ്രഭാഷണത്തിൽ നമ്മൾ അവതരിപ്പിക്കുന്ന മറ്റൊരു പദം ഡൈനാമിക് പ്രോഗ്രാമിംഗ് ആണ് അതിനാൽ ഒരു ഇൻഡക്റ്റീവ് നിർവചനം വിലയിരുത്തുന്നതിന്റെ ആവർത്തന ഭാഗം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതാണ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് ചെയ്യുന്നത് മെമ്മോയിസേഷനിൽ നമ്മൾ ചെയ്യുന്നത് ഇൻഡക്റ്റീവ് നിർവചനം സാധാരണപോലെ കൃത്യമായി ആവർത്തിച്ച് വിലയിരുത്തുന്നു ഒരേ കാര്യം രണ്ടുതവണ കണക്കുകൂട്ടുന്നത് ഒഴിവാക്കാൻ സഹായിക്കുന്ന ടേബിൾ സൂക്ഷിക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഡൈനാമിക് പ്രോഗ്രാമിംഗിൽ ടേബിൾ എങ്ങനെയായിരിക്കണമെന്നും ടേബിളിലെ മൂല്യങ്ങൾ എങ്ങനെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നു നമുക്ക് 5 ന്റെ ഫിബൊനാച്ചി കമ്പ്യൂട്ടിംഗ് ഉണ്ടെന്ന് കരുതുക തുടർന്ന് ഫിബൊനാച്ചിയുടെ ചില ലളിതമായ വിശകലനത്തിലൂടെ എനിക്കറിയാം എന്റെ ഫിബൊനാച്ചിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനേക്കാൾ ചെറുതും ചെറിയ കാര്യവും നിങ്ങൾക്ക് 0 ന്റെ ഫിബൊനാച്ചി നേടാം അതിനാൽ 5 ന്റെ ഫിബൊനാച്ചി നമുക്ക് താൽപ്പര്യമുള്ളേക്കാവുന്ന ഉപ പ്രശ്നം അല്ലെങ്കിൽ 0 ന്റെ ഫിബൊനാച്ചി 5 ന്റെ ഫിബൊനാച്ചി എന്നിവയ്ക്കിടയിലുള്ള എല്ലാ ഉപ പ്രശ്നങ്ങളും നമ്മൾക്കറിയാം 5 ന്റെ ഫിബൊനാച്ചി ആവശ്യമില്ല 6 7 8 മാർക്കിന്റെ ഫിബൊനാച്ചി നെഗറ്റീവ് നമ്പറിന്റെ ഫിബൊനാച്ചി എന്ന് വിളിക്കാം കാരണം ഇത് നിർവചിച്ചിട്ടില്ല അതിനാൽ നാം പരിഗണിക്കേണ്ട വളരെ ചെറിയ അനന്ത സജ്ജീകരണ മൂല്യങ്ങളുണ്ട് ഇപ്പോൾ അടുത്ത നിരീക്ഷണം പ്രശ്ന ഘടനയിൽ നിന്ന് നമുക്ക് ഡിപൻഡൻസികൾ കണക്കുകൂട്ടാൻ കഴിയും ഇത് ഇൻഡക്റ്റീവ് നിർവചനത്തിൽ നിന്നുള്ളതാണ് അതിനാൽ 4 ന്റെ ഫിബൊനാച്ചി തുല്യമാണ് അതായത് n ന്റെ ഫിബൊനാച്ചി m മൈനസ് 1 പ്ലസ് m മൈനസ് 2 ആണ് അതിനാൽ 5 എന്നത് 4 3 എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഞാൻ പറയും 5 കണക്കുകൂട്ടാൻ ഉണ്ട് ഞാൻ ആദ്യത്തെ 4 ഉം 3 ഉം ആണ് അത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നതിൽ നിന്ന് ഞാൻ ആരോ വരക്കും അതിനാൽ 5 എന്നത് 4 നെ ആശ്രയിച്ചിരിക്കുന്നു 5 3 നെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഞാൻ 4 മുതൽ 3 വരെയും 4 മുതൽ 5 വരെയും 3 മുതൽ 5 വരെയും ഒരു അറേ ഇട്ടു അവിടെ അയയ്ക്കുക ഒരു ആശ്രയത്വമുണ്ട് 4 1 3 2 3 എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു കൂടാതെ 2 1 2 എന്നിവ 1 0 എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു തീർച്ചയായും 1 ഉം 0 ഉം അടിസ്ഥാന കേസുകളാണ് അവ ഒന്നിനെയും ആശ്രയിക്കുന്നില്ല അതിനാൽ ഡിപൻഡൻസികൾ ഒരു ഡാഗ് ഉണ്ടാക്കും എന്തുകൊണ്ടാണ് അവ ഒരു ഡാഗ് ആയിത്തീരുന്നത് ഒരു ഡാഗിൽ നിന്ന് അവർ വ്യക്തമായിരിക്കണം കാരണം സ്യ്ക്ലിക് ഡിപൻഡൻസികളുണ്ടെങ്കിൽ അവ മറ്റൊന്നിനുമുമ്പ് കണക്കുകൂട്ടാൻ കഴിയില്ല അതിനാൽ ഏത് തരത്തിലുള്ള ആശ്രയത്വത്തിലും ഇത് വളരെ സ്വാഭാവിക കാര്യമാണ് പാസ് തമ്മിലുള്ള ആശ്രിതത്വമാണോ എന്ന് ഡാഗ് ചെയ്തപ്പോൾ കണ്ടത് മറ്റെന്തെങ്കിലും ചെയ്യുക അത് അവിടെ അദ്ധ്യക്ഷനാകുന്നു അത് പറയുന്നു എനിക്ക് കഴിയില്ലെങ്കിൽ 2 ന്റെ ഫിബൊനാച്ചി കണക്കുകൂട്ടുക എനിക്ക് 3 ന്റെ ഫിബൊനാച്ചി കണക്കുകൂട്ടാൻ കഴിയില്ല കാരണം അത് ആദ്യം ചെയ്തു ഇപ്പോൾ ഈ ഡിപൻഡൻസികൾ എനിക്കറിയാം എനിക്ക് ഇപ്പോൾ അവയെ ടോപ്പോളജിക്കൽ ക്രമത്തിൽ കണക്കാക്കാം അതായത് ഞാൻ കണക്കാക്കേണ്ട ഒരു മൂല്യത്തിൽ എത്തുമ്പോൾ അത് ആശ്രയിച്ചിരിക്കുന്നതെല്ലാം മാനദണ്ഡം 4 ആണ് അതിനാൽ ഇവിടെ ഒരു സ്വാഭാവിക ലോഗ് ഔട്ട് തീർച്ച ആണ് 0 1 2 3 4 5 കാരണം ഇവ രണ്ടും ഇൻകമിംഗ് പ്രായമില്ലാത്ത ഘടകങ്ങളല്ല അതിനാൽ ഒന്നുകിൽ എനിക്ക് 0 അല്ലെങ്കിൽ അത് 1 ആയ ഇണയുടെ ടോപ്പോളജിക്കൽ ക്രമം ആരംഭിക്കാൻ കഴിയും അതിനാൽ 0 ന്റെ ആരംഭം എന്ന് നമുക്ക് കരുതാം അതിനാൽ 0 ന്റെ ഫിബൊനാച്ചി ഒന്നിനെയും ആശ്രയിക്കുന്നില്ലെന്ന് എനിക്കറിയാം അത് പ്രചരിക്കുന്ന ഒരു അടിസ്ഥാന കേസായിരിക്കണം അതുപോലെ തന്നെ 1 ന്റെ ഫിബൊനാച്ചി ഒന്നും ആശ്രയിക്കുന്നില്ലെന്ന് എനിക്കറിയാം ഇത് ഒരു അടിസ്ഥാന കേസാണ് ഞാൻ അങ്ങനെ ആണെങ്കിൽ ഈ പോയിന്റ് ഇവ രണ്ടും ചെയ്തു കാരണം ഇവ രണ്ടും ചെയ്തതിനാൽ ഈ അരികുകൾ ഇല്ലാതായി ഇത് ചൂണ്ടിക്കാണിക്കാൻ ഒന്നുമില്ല അതിനാൽ ഇത് ഒരു ടോപ്പോളജിക്കൽ സോർട്ട് അടിസ്ഥാന ടോപ്പോളജിക് സെറ്റും മൂന്നിന് ഇപ്പോഴും 2 എന്ന ഡിപൻഡൻസിയുണ്ട് എന്നാൽ 2 ന് 1 0 എന്നിവയ്ക്ക് കൂടുതൽ ഡിപൻഡൻസികളുണ്ട് എനിക്ക് 2 ന്റെ ഫിബൊനാച്ചി പിന്നെ 3 4 5 എന്നിവയുടെ ഫിബൊനാച്ചിക്ക് ഫിബ് ചെയ്യാൻ കഴിയും ഫിബൊനാച്ചി കൈകൊണ്ട് കണക്കുകൂട്ടാൻ നമ്മൾ ശ്രമിക്കുന്നു നിങ്ങൾ യഥാർത്ഥത്തിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് നിങ്ങൾ ഫിബൊനാച്ചി നമ്പറുകൾ ഇടത്തുനിന്ന് വലത്തോട്ട് എഴുതുമ്പോൾ അവിടെ മുമ്പത്തേതും അടുത്തത് കണക്കുകൂട്ടുന്നതുമാണ് യഥാർത്ഥത്തിൽ ഡൈനാമിക് പ്രോഗ്രാം എന്ന് വിളിക്കുന്നത് ഫിബൊനാച്ചി ഫംഗ്ഷനായുള്ള ഡൈനാമിക് പ്രോഗ്രാമിംഗ് ആവർത്തിച്ച് ടേബിൾ പൂരിപ്പിക്കുന്നത് ഉൾക്കൊള്ളുന്നു നമ്മൾ ആരംഭിക്കുന്നത് 0 1 മൂല്യം ആയിരിക്കും തുടർന്ന് 2 മുതൽ n വരെ തീർച്ചയായും n ഇതിനേക്കാൾ കുറവാണെങ്കിൽ തീർച്ചയായും ഈ സമവാക്യത്തിലൂടെ കടന്നുപോകില്ല 2 മുതൽ n വരെ i മൈനസ് 1 എൻട്രിയിൽ നിന്ന് i മൈനസ് 2 എൻട്രി വഴി നമ്മൾ ith എൻട്രി പൂരിപ്പിക്കുന്നു പക്ഷേ ഈ രണ്ട് മൂല്യങ്ങളും മുമ്പ് സംഭവിക്കുന്നതിന് മുമ്പ് കണ്ടതുപോലെ അവ ഇതിനകം പൂരിപ്പിക്കും അതിനാൽ എന്റെ മെമ്മോ ടേബിൾ ഫില്ലിംഗ് പൂരിപ്പിക്കുന്നത് ഒരു ആവർത്തന കണക്കുകൂട്ടലിൽ നിന്ന് ഡിമാൻഡ് നെറ്റ്വർക്കായി പരിവർത്തനം ചെയ്തു തുടക്കം മുതൽ അവസാനം വരെ അന്ധമായി പൂരിപ്പിക്കൽ ഇത് ഡൈനാമിക് പ്രോഗ്രാം ആണ് ചുരുക്കത്തിൽ ഇൻഡക്റ്റീവ് ഫംഗ്ഷനുകളുടെ ആവർത്തന കണക്കുകൂട്ടലുകൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് രണ്ട് സ്ട്രാറ്റെജി നമ്മൾ കണ്ടു ആദ്യത്തേത് മേമോയിസേഷൻ അതിനാൽ മെമ്മൈയിസേഷൻ ചെയ്യുന്നത് ഉപ പ്രശ്നത്തിലെ പ്രവർത്തനത്തിന്റെ മൂല്യം കണക്കാക്കുമ്പോഴെല്ലാം അത് ആഴത്തിലുള്ളതാക്കുന്നു മൂല്യം കണക്കുകൂട്ടാൻ ഇത് ആവർത്തിച്ച് ഫംഗ്ഷനെ വിളിക്കുന്നതിനുമുമ്പ് അതേ മൂല്യത്തിലേക്ക് ഇതിനകം കണക്കുകൂട്ടിയ ഈ മൂല്യം ഒരിക്കലും ഒരേ കണക്കുകൂട്ടൽ ഒരിക്കലും രണ്ടുതവണ സംഭവിക്കുന്നില്ലേ എന്ന് കാണാൻ ടേബിൾ നോക്കും മറുവശത്ത് ഡൈനാമിക് പ്രോഗ്രാമിംഗിൽ നമ്മൾ പ്രശ്നഘടന വിശകലനം ചെയ്യുന്നു ഉപ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞു ഈ ഉപപ്രശ്ന ഘടന ഒരു ഡാഗിനെ തൃപ്തിപ്പെടുത്തുന്നുവെന്ന് നമ്മൾക്കറിയാം ഡിപൻഡൻസികൾ ഒരു ഡാഗ് രൂപപ്പെടുത്തണം കാരണം ഒരു ഡാഗ് ആയിരിക്കരുത് അപ്പോൾ നമുക്ക് സൈക്കിളുകളും ഉണ്ടാകും കൂടാതെ കാര്യങ്ങൾ ഒന്നും പരിഹരിക്കാൻ കഴിയില്ല ഇത് ചെയ്തുകഴിഞ്ഞാൽ ഡൈനാമിക് പ്രോഗ്രാമിംഗിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ആവർത്തന മൂല്യനിർണ്ണയമാണ് ഇത് യഥാർത്ഥത്തിൽ പ്രായോഗികമായി ഒരു വലിയ ലാഭമാണ് കാരണം മിക്ക പ്രോഗ്രാമിംഗ് ഭാഷകളിലും ആവർത്തനത്തിന് ഒരു മറഞ്ഞിരിക്കുന്ന ചിലവുണ്ട് കാരണം ഓരോ ഫംഗ്ഷൻ കോളിനും യഥാർത്ഥത്തിൽ നിശ്ചിത അളവിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റവും പ്രോഗ്രാമിംഗ് ഭാഷയും ആവശ്യമാണ് ബ്യൂറോക്രസി ചില അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾ കുറച്ച് മെമ്മറി പ്രഖ്യാപിക്കാൻ അവരെ എടുക്കുക ഡൈനാമിക് പ്രോഗ്രാം റെസല്യൂഷനിൽ ഇത് പൂർണ്ണമായും ഒഴിവാക്കുന്നു മെമ്മോയിസേഷൻ നമുക്ക് നൽകിയ പ്രശ്നത്തിന് ആവശ്യമായ ആവർത്തന കോളുകളുടെ പരമാവധി എണ്ണം നൽകുമെങ്കിലും നീക്കംചെയ്യാൻ കഴിയുന്നത് ഒരു വലിയ ലാഭമാണ് ഇല്ലെങ്കിൽ രണ്ടുതവണ എന്തെങ്കിലും വിളിക്കാൻ പോകുന്നു അതിൽ ഇപ്പോഴും ആവർത്തന കോളുകൾ ഉൾപ്പെടും കൂടാതെ ആവർത്തന കോളുകൾ അവരുടെ സ്വന്തം രചനയിൽ വിപുലമാക്കാം അൽഗോരിതം നിമിത്തം നമ്മൾ സാധാരണ ഫംഗ്ഷൻ കോൾ ഒരു തരം യൂണിറ്റ് കോസ്റ്റ് ഓപ്പറേഷനായി വായിക്കുന്നു പക്ഷേ പ്രായോഗികമായി അങ്ങനെയല്ല അതിനാൽ ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഒരു വലിയ ലാഭിക്കലാണ് കാരണം ഇത് യഥാർത്ഥത്തിൽ പരിവർത്തനം ചെയ്യുന്നു ആവർത്തന കാര്യത്തെ ഒരു ആവർത്തന സ്കീമിലേക്ക് ഒപ്റ്റിമൈസ് ചെയ്യുന്നു